ഫംഗ്ഷൻ നിർവ്വചിക്കുമ്പോൾ നമ്മൾ ഫംഗ്ഷന് അയച്ചുകൊടുക്കുന്ന വിലകൾ ആർഗ്യുമെന്റുകളുടെ സെറ്റിന് ആവശ്യമുള്ള വിലകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതായി നാം കാണുകയുണ്ടായി മാത്രമല്ല വ്യക്തമായ അസൈൻമെൻറ് പോലെ ഫലപ്രദമാണിത് അതുകൊണ്ട് നമ്മൾ 3 5 എന്നീ വിലകളുപയോഗിച്ച് powerxn വിളിക്കുകയാണെങ്കിൽ x 3 ഉം n 5 ഉം എന്ന അസൈൻമെൻറ് നടക്കുന്നു ഇത് യഥാർത്ഥത്തിൽ അവിടെയില്ല എന്നിരുന്നാലും ഈ അസൈൻമെൻറിന് പിന്നാലെ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു തിർച്ചയായും ഫങ്ക്ഷൻ നിർവ്വചിക്കുമ്പോൾ x ഉം n നമ്മൾ സൂചിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഫങ്ക്ഷനെ വിളിക്കുമ്പോളുള്ള ഒരു നേട്ടം അത് ഫങ്ക്ഷൻ വിളിയുടെ ഒപ്പം വരുന്നു അതുകൊണ്ട് x ൻറെയും n ൻറെയും വ്യത്യസ്തമായ വിലകൾക്ക് നമ്മൾ ഒരേ കോഡ് തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളെ തലതിരിച്ചിരിച്ചിട്ട് power ഫങ്ക്ഷനെ വിളിക്കുവാൻ പോലും സാധിക്കും മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ താഴത്തെ വില x ആണ് അത് powerxn എന്നാണ് എന്നാൽ x ആണോ ആദ്യം വരുന്നത് n ആണോ ആദ്യം വരുന്നത് എന്നോ എനിക്കറിയില്ല ഉദാഹരണത്തിന് n 5 ഉം x 4 ഉം ആണെന്ന് പറയുന്നു മാത്രമല്ല ഈ വിലകൾ വളരെ കൃത്യമായി ആർഗ്യുമെൻറിൻറെ പേരിനോട് ബന്ധപ്പെട്ടിരിക്കും പേരിൻറെ അടിസ്ഥാനത്തിലാണ് അത് ബന്ധ പ്പെട്ടിരിക്കുന്നത് അല്ലാതെ ആർഗ്യുമെൻറിൻറെ സ്ഥാനത്തിനനുസരിച്ചല്ല പൈത്തൺ നമുക്ക് അനുവദിക്കുന്ന ഒന്നാമത്തെ വഴക്കം എന്താണെന്ന് വെച്ചാൽ അത് പോകുന്നത് ക്രമത്തില്ല എന്നതാണ് ഇവിടെ ഒന്നാമത്തേത് x ഉം രണ്ടാമത്തേത് n ഉം ആണ് നിങ്ങൾ ക്രമം എങ്ങിനെയാണെന്ന് ഓർമ്മിക്കുന്നില്ലെങ്കിൽ എന്നാൽ നിങ്ങൾക്ക് പേരുകളും അവയ്ക്ക് നൽകിയ വിലകളും അറിയാമെങ്കിൽ നമുക്ക് തീർച്ചയായും അവയെ പേരുപയോഗിച്ച് വിളിക്കുവാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളെ തലതിരിച്ചിരിച്ചിട്ട് power ഫങ്ക്ഷനെ വിളിക്കുവാൻ പോലും സാധിക്കും മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ താഴത്തെ വില x ആണ് അത് powerxn എന്നാണ് എന്നാൽ x ആണോ ആദ്യം വരുന്നത് n ആണോ ആദ്യം വരുന്നത് എന്നോ എനിക്കറിയില്ല ഉദാഹരണത്തിന് n 5 ഉം x 4 ഉം ആണെന്ന് പറയുന്നു മാത്രമല്ല ഈ വിലകൾ വളരെ കൃത്യമായി ആർഗ്യുമെൻറിൻറെ പേരിനോട് ബന്ധപ്പെട്ടിരിക്കും പേരിൻറെ അടിസ്ഥാനത്തിലാണ് അത് ബന്ധ പ്പെട്ടിരിക്കുന്നത് അല്ലാതെ ആർഗ്യുമെൻറിൻറെ സ്ഥാനത്തിനനുസരിച്ചല്ല പൈത്തണിന്റെ മറ്റൊരു സവിശേഷമായ പ്രത്യേകത ചില ആർഗ്യുമെന്റുകൾ വിടുവാനും അവയ്ക്ക് സൂചിതമായ ഡിഫാൾട്ട് വിലകൾ നൽകുവാനും അനുവദിക്കുന്നു എന്നുള്ളതാണ് ഇതേപോലെ ഒരു സാധുവായ ഒരു ഇന്റിജെറിനെ പ്രതിനിധീകരിക്കുന്ന സ്ട്രിംഗിനെ ഇന്റിജെറായി സൂചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു പരിവർത്തന ഫംഗ്ഷൻ int നമ്മൾ തയ്യാറാക്കിയത് ഓർക്കുമല്ലോ അതുകൊണ്ട് "76" എന്ന സ്ട്രിങ്ങിനെ അതിന് നൽകുകയാണെങ്കിൽ int അതിനെ 76 എന്ന സംഖ്യയായി പരിവർത്തനം ചെയ്യുന്നു എന്ന് നമ്മൾ പ്രസ്താവിക്കുകയുണ്ടായി അതേസമയത്ത് "A5" പോലുള്ള സ്ട്രിങ്ങിനെ നമ്മൾ അതിന് നൽകുകയാണെങ്കിൽ യാഥാർത്ഥത്തിൽ "A5" ഒരു പിശക് ഉളവാക്കുന്നു കാരണം ഇവിടെ A ഒരു സാധുവായ സംഖ്യയല്ല യഥാർത്ഥത്തിൽ int ഒരു ആർഗ്യുമെൻറ് മാത്രമുള്ള ഒരു ഫംഗ്ഷനല്ല എന്നും മറിച്ച് രണ്ട് ആർഗ്യുമെന്റുകളുണ്ടെന്നും ഇപ്പോൾ വ്യക്തമാകുകയാണ് രണ്ടാമത്തെ ആർഗ്യുമെന്റ് അതിന്റെ അടിസ്ഥാനം ആണ് അതുകൊണ്ട് നമ്മൾ അതിന് ഒരു സ്ട്രിംഗിനെ നൽകി അതിനെ b അടിസ്ഥാനമായുള്ള ഒരു നമ്പറായി പരിവർത്തനം ചെയ്യുന്നു മാത്രമല്ല നമ്മൾ b യുടെ വില നൽകിയില്ലെങ്കിൽ അതിന് ഡിഫാൾട്ട് വിലയായ ബേസ് 10 ആയിരിക്കും അതായത് നേരത്തെയുള്ള int പരിവർത്തനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 10 അടിസ്ഥാനമായ int"76" എന്ന് നമ്മൾ പറയുകയാണെങ്കിലും ഇതുവരെ 10 അടിസ്ഥാനമെന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടില്ല കാരണം ഒരു വില നൽകിയില്ലെങ്കിലും ഡിഫാൾട്ട് വിലയായ 10 പകരം നൽകുവാനുള്ള ഒരു പ്രക്രിയ പൈത്തണിൽ ഉണ്ട് നിങ്ങൾ അതിന് ഒരു വില നൽകുകയാണെങ്കിൽ ഉദാഹരണത്തിന് നമുക്ക് "A5" ന് പോലും ഒരു അർത്ഥം കാണുവാൻ സാധിക്കും നിങ്ങൾ സ്കൂളിൽ എപ്പോഴെങ്കിലും ബേസ് 16 പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസ് 16 നെ പറ്റി അറിവുണ്ടെങ്കിൽ അതിൽ 0 മുതൽ 9 അക്കങ്ങൾ ഉണ്ടാകും കൂടാതെ ബേസ് 16 ൽ 15 വരെയുള്ള നമ്പറുകളുണ്ടായിരിക്കും അതുകൊണ്ട് 9 ന് ശേഷമുള്ള നമ്പറുകളെ സാധാരണ എഴുതുന്നത് A B C D E F ഇവ ഉപയോഗിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ബേസ് 16 ൽ A പ്രതിനിധീകരിക്കുന്നത് 10 നെയാണ് ബേസ് 16 ൽ "A5" എന്ന് നിങ്ങൾ എഴുതിയാൽ അത് പതിനാറാമത്തെ സ്ഥാനവും 5 ഒറ്റയുടെ സ്ഥാനവുമായിരിക്കും അതുകൊണ്ട് നമുക്ക് 16 തവണ 10 ഉണ്ടായിരിക്കും കാരണം A എന്നാൽ 10 ആണ് അതിന്റെ കൂടെ 5 കൂട്ടുന്നു സംഖ്യ സംബന്ധമായി ഇത് നൽകുന്നത് കൃത്യമായി 165 ആയിരിക്കും പൈത്തണിൽ ഇത് എങ്ങിനെയാണ് പ്രവർത്തിക്കുന്നത് സമാനമായ ഒരു ഫംഗ്ഷൻ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ആന്തരികമായി എങ്ങിനെയാണ് അതുകൊണ്ട് നിങ്ങൾ ആർഗ്യുമെന്റുകൾ നൽകുന്നു മത്രമല്ല നിങ്ങൾക്ക് നിർബന്ധമല്ലാത്ത ഡിഫാൾട്ട് ആർഗ്യുമെന്റ് ഉപയോഗിക്കണമെങ്കിൽ ഫംഗ്ഷൻ നിർവ്വചനത്തിൽ നിങ്ങൾ ഡിഫാൾട്ട് ആർഗ്യുമെന്റുകൾക്ക് വിലകൾ നൽകണം അതുകൊണ്ട് ഈ നിർവ്വചനം എന്താണെന്ന് വെച്ചാൽ int എന്ന ഫംഗ്ഷൻ രണ്ട് ആർഗ്യുമെന്റുകൾ അതായത് s ഉം b യും സ്വീകരിക്കുന്നു ഇതിൽ b 10 ആണെന്ന് അനുമാനിക്കുന്നു അതിനാൽ ഇത് നിർബന്ധമില്ലാത്ത ആർഗ്യുമെന്റാണ് ഒരു വ്യക്തി രണ്ടാമത്തെ ആർഗ്യുമെന്റ് ഒഴിവാക്കുകയാണെങ്കിൽ അത് സ്വമേധയാ 10 എന്ന വില എടുക്കുന്നു അല്ലെങ്കിൽ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ കൊടുത്ത വില എടുക്കുന്നു ഒരു ഫംഗ്ഷന് ഡിഫാൾട്ട് വില നൽകുന്നത് അതിനെ നിർവ്വചിക്കുമ്പോഴാണ് മാത്രമല്ല ആ പരാമീറ്റർ ഒഴിവാക്കുകയാണെങ്കിൽ പകരം ഡിഫാൾട്ട് വില സ്വീകരിക്കുന്നതായിരിക്കും എന്നാൽ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതെന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷൻ നിർവ്വചിക്കുമ്പോൾ ലഭ്യമാക്കേണ്ടതായ ഏതോ ഒരു വിലയാണ് ഈ ഡിഫാൾട്ട് വില അത് ഫംഗ്ഷനെ വിളിക്കുമ്പോൾ കണക്കുകൂട്ടി കണ്ടുപിടിക്കുന്ന ഒരു വിലയാകുവാൻ പാടില്ല അതുകൊണ്ട് ക്വിക്ക് സോർട്ട് മെർജ് സോർട്ട് ബൈനറി സേർച്ച് തുടങ്ങിയ നിരവധി ഫംഗ്ഷനുകൾ നമ്മൾ മനസ്സിലാക്കി ഇവിടെ അറേ യുടെ ഒപ്പം അതിന്റെ ആദ്യത്തെ സ്ഥാനവും അവസാനത്തെ സ്ഥാനവും നൽകുവാൻ നമ്മൾ നിർബന്ധിതരാവുന്നു ഇടയ്ക്കുള്ള വിളികൾക്ക് ഇത് വളരെ നല്ലതാണ് എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ലിസ്റ്റിനെ സോർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ആദ്യത്തെ തവണ അതിനെ പൂജ്യവും അതിന്റെ നീളവും ഉപയോഗിച്ച് വിളിക്കേണ്ടി വരാറുണ്ട് എന്ന് എപ്പോഴും ഓർക്കുക അതുകൊണ്ട് ഒന്നാമത്തെ ആർഗ്യുമെന്റായി A എന്ന് പേരുള്ള പ്രാഥമിക അറേയും അതിനുശേഷം ഡിഫാൾട്ടായി ഇടത് അതിര് പൂജ്യമായും വലത് അതിര് A യുടെ നീളമായും എടുത്തുകൊണ്ട് ഒരു ഫംഗ്ഷൻ നമ്മൾ നിർവ്വചിക്കുന്നു എന്നാൽ പ്രശ്നമെന്താണെന്നു വെച്ചാൽ ഈ അളവ് അതായത് A യുടെ നീളം അതിനെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഫംഗ്ഷൻ നിർവ്വചിക്കുമ്പോൾ A യ്ക്ക് ഒരു വില ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ആവാം മാത്രമല്ല A യ്ക്ക് വേണ്ടി നിങ്ങൾ തെരെഞ്ഞെടുത്ത വില ഏത് തന്നെയായാലും ആ നീളം ഡിഫാൾട്ടായി എടുക്കുന്നു നമ്മൾ Quicksort വിളിക്കുമ്പോൾ ഓരോ സമയത്തും പരിവർത്തനാത്മകമായി അത് കണക്ക് കൂട്ടി കണ്ടുപിടിക്കുന്നില്ല അതുകൊണ്ട് ഇത് ശരിയായി പ്രവർത്തിക്കുകയില്ല അതായത് നിങ്ങൾക്ക് ഡിഫാൾട്ട് വിലകളുണ്ടെങ്കിൽ ആ ഡിഫാൾട്ട് വില സ്റ്റാറ്റിക് വിലയായിരിക്കണം ഫംഗ്ഷൻ നിർവ്വചനം ആദ്യത്തെ തവണ വായിക്കുമ്പോഴാണ് അത് നിർണ്ണയിക്കപ്പെടുന്നത് അല്ലാതെ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴല്ല ഇവിടെ ഒരു ലളിതമായ മതൃകയുണ്ട് നമുക്ക് a b c d എന്നീ 4 ആർഗ്യുമെന്റുകളുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് കരുതുക മാത്രമല്ല c ക്ക് ഡിഫാൾട്ട് വിലയായി 14 ഉം d ക്ക് ഡിഫാൾട്ട് വിലയായി 22 ഉം ഉണ്ട് നിങ്ങൾ വെറും രണ്ട് ആർഗ്യുമെന്റുകൾ മാത്രമുപയോഗിച്ച് ഈ ഫംഗ്ഷനെ വിളിക്കുകയാണെങ്കിൽ ഈ വിലകൾ a യ്ക്കും b യ്ക്കും നൽകപ്പെടും അതായത് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത് f13 12 എന്നാണ് മാത്രമല്ല കാണാത്ത ആർഗ്യുമെന്റുകളായ c യ്ക്കും d യ്ക്കും ഡിഫാൾട്ട് വിലകളായ 14 22 എന്നീ വിലകളും ലഭിക്കുന്നു അതേസമയത്ത് നിങ്ങൾ 3 ആർഗ്യുമെന്റുകൾ നൽകുകയാണെങ്കിൽ a യ്ക്ക് 13 b യ്ക്ക് 12 എന്നീ ഡിഫാൾട്ട് വിലകൾ മുമ്പത്തെപോലെ ലഭിക്കുന്നു c യ്ക്ക് 16 ലഭിക്കുന്നു എന്നാൽ d യുടെ വില വ്യക്തമാക്കാതെ വിട്ടിരിക്കുന്നു അതുകൊണ്ട് ഡിഫാൾട്ട് വില അതിന് ലഭിക്കുന്നു ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത് f131216 എന്നാണ് കൂടാതെ 22 ഡിഫാൾട്ട് വിലയായിരിക്കും അതുകൊണ്ട് ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡിഫാൾട്ട് വിലകൾ നൽകപ്പെടുന്നത് സ്ഥാനപ്രകാരമായിരിക്കും ഈ ഫംഗ്ഷനിൽ d യ്ക്ക് 16 നൽകണമെങ്കിൽ യാതൊരു മാർഗ്ഗവുമില്ല മാത്രമല്ല ഡിഫാൾട്ട് വില c നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവസാനം മുതൽ മാത്രമാണ് സ്ഥാനപ്രകാരം നിങ്ങൾക്ക് വിലകൾ നീക്കം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് 2 ഡിഫാൾട്ട് വിലകൾ ഉണ്ടാവുകയും എനിക്ക് അതിൽ രണ്ടാമത്തേത് മാത്രം വ്യക്തമാക്കുകയും വേണമെങ്കിൽ അത് സാധിക്കുകയില്ല അതിനെ പുനക്രമീകരിക്കണമെങ്കിൽ എനിക്ക് ഫംഗ്ഷനെ പുനർനിർവ്വചിക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ഈ ഡിഫാൾട്ട് വിലകൾ ഉപയോഗിക്കുമ്പോൾ അത് അവസാനമാണ് വരുന്നത് മാത്രമല്ല സ്ഥാനപ്രകാരമായിരിക്കും അവ തിരിച്ചറിയപ്പെടുന്നത് മാത്രമല്ല അവയെ കൂട്ടിക്കലർത്തുവാൻ പാടില്ല മാത്രമല്ല ക്രമരഹിതമായി ഇത്തരം കാര്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾ സ്വയം ആശയക്കുഴപ്പത്തിലാകുവാനും പാടില്ല അതുകൊണ്ട് ആർഗ്യുമെന്റുകളുടെ ക്രമം വളരെ പ്രധാനമാണ് ഒരു ഫംഗ്ഷന്റെ നിർവ്വചനം ഫംഗ്ഷന്റെ ബോഡി യുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരു പേര് മുഖേനയാണ് കുറച്ച് ആർഗ്യുമെന്റുകൾ സ്വീകരിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുന്ന ഒരു ഫംഗ്ഷനെയാണ് f എന്ന പേര് കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒരു വിലയെ ഒരു പേരിന് നൽകുന്ന പോലെയുള്ള ഒരു പ്രവർത്തനമായാണ് പലവിധേന പൈത്തൺ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഉദാഹരണത്തിന് വ്യവസ്ഥകളോടെ ഈ വില വ്യത്യസ്തമായ മാർഗ്ഗത്തിൽ പല വിധത്തിലും നിർവ്വചിക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഒരു ഫംഗ്ഷൻ പുനർനിർവ്വചിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ എങ്ങിനെയാണ് കമ്പ്യൂട്ടേഷൻ പുരോഗമിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചുകൊണ്ട് അതിനെ വ്യത്യസ്തമായ വിധത്തിൽ നിർവ്വചിക്കുവാൻ സാധിക്കും വ്യവസ്ഥകളോടെയുള്ള നിർവ്വചനത്തിന് ഒരു ഉദാഹരണം ഇവിടെയുണ്ട് നിങ്ങൾക്ക് ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് കരുതുക അത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് f നെ ഒരു വിധത്തിൽ നിർവ്വചിക്കാം അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നിർവ്വചിക്കാം അതുകൊണ്ട് ഇതിൽ ഏതൊക്കെ കണ്ടീഷനുകളാണ് ഈ നിർവ്വചനം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിലനൽക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് f ൻറെ വില പിന്നീട് വ്യത്യസ്തപ്പെട്ടിരിക്കും ചെയ്യുവാൻ അഭികാമ്യമായ ഒരു കാര്യമാണ് എന്ന് പ്രസ്താവിക്കുവാൻ വേണ്ടിയല്ല ഇത് കാരണം f എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കിയേക്കാം എന്നാൽ എങ്ങിനെയാണ് കമ്പ്യൂട്ടേഷൻ പുരോഗമിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്ക് f നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എഴുതേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം ഇത് ചെയ്യുവാൻ പൈത്തൺ നിങ്ങളെ അനുവദിക്കുന്നു ഒരുപക്ഷേ പ്രാരംഭ ഘട്ടത്തിൽ ഇത് വളരെ ഉപകാരപ്രദമാകണമെന്നില്ല പക്ഷെ പ്രത്യേകിച്ച് നിങ്ങൾ തുടരുകയും f നെ പുനർനിർവ്വചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയും ചെയ്യുമ്പോൾ അങ്ങിനെയൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഇത് ഉപകാരപ്രദമായിരിക്കും പൈത്തണിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വിചിത്രമായ മറ്റൊരു കാര്യമെന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള ഒരു ഫംഗ്ഷനെടുത്ത് പുതിയ ഒരു പേരിനോട് മാപ്പ് ചെയ്യുവാൻ സാധിക്കുമെന്നതാണ് അതുകൊണ്ട് f എന്ന് പേരുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് നിർവ്വചിക്കാം ഈ ഫംഗ്ഷന്റെ ബോഡിയുമായി f എന്ന് പേര് ബന്ധപ്പെട്ടിരിക്കുന്നു പിന്നീടൊരവസരത്തിൽ g സമം f എന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ gabc എന്നത് fab c എന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഫംഗ്ഷനിൽ നിങ്ങൾ g എന്ന് ഉപയോഗിച്ചാൽ അത് ഫംഗ്ഷൻ f എന്ന് ഉപയോഗിക്കുന്നത് പോലെ കൃത്യമായിരിക്കും ഒരു ലിസ്റ്റ് മറ്റൊരു ലിസ്റ്റിന് നൽകുന്നത് പോലെയും ഒരു ഡിക്ഷ്ണറി മറ്റൊരു ഡിക്ഷ്ണറിക്ക് നൽകുന്നത് പോലെയും കൃത്യമായി സമമായിരിക്കും അത് നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വരുന്നതെന്തുകൊണ്ടാണ് അതുകൊണ്ട് ഈ സൌകര്യം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷനിലേക്ക് അയക്കാമെന്നതാണ് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് നമുക്ക് ഒരു നിർദ്ധിഷ്ഠ ഫംഗ്ഷൻ f ന് അതിന്റെ ആർഗ്യുമെന്റിൽ n തവണ പ്രയോഗിക്കണമെന്ന് കരുതുക ഇതിനുവേണ്ടി 3 ആർഗ്യുമെന്റുകൾ സ്വീകരിക്കുന്ന apply എന്ന് പേരുള്ള ഒരു പൊതുവായ ഫംഗ്ഷൻ നമുക്ക് എഴുതാം ആദ്യത്തേത് ഫംഗ്ഷനും രണ്ടാമത്തേത് ആർഗ്യുമെന്റും മൂന്നാമത്തേത് തവണകളുടെ എണ്ണവും ആവർത്തനങ്ങൾ ആണ് അതുകൊണ്ട് നിങ്ങൾ നൽകിയ വില എടുത്ത് കൊണ്ട് നമുക്ക് ആരംഭിക്കാം പലതവണ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഫംഗ്ഷൻ f ആവർത്തിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഒരു ശക്തമായ ഒരു ഉദാഹരണമെടുത്ത് പരിശോധിക്കാം x ഗുണനം x എന്ന മൂല്യം തിരിച്ചു നൽകുന്ന ഒരു ഫംങ്ക്ഷൻ നമ്മൾ നിർവ്വചിച്ചിട്ടുണ്ടെന്ന് കരുതുക square എന്ന ഫംങ്ക്ഷൻ 5 എന്ന വില രണ്ട് പ്രാവശ്യം പ്രയോഗിക്കണമെന്ന് പറയാൻ നമുക്ക് സാധിക്കും അതായത് ഇത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ 5 ൻറെ square കണ്ടുപിടിക്കുക ആ കിട്ടിയതിന്റെ square അതിന് ശേഷം കണ്ടുപിടിക്കുക അതായത് രണ്ട് തവണ square ചെയ്യുക ആയതിനാൽ നിങ്ങൾക്ക് ലഭിക്കന്നത് 5 ൻറെ square സമം 25 25 ൻറെ square സമം 625 എന്ന് ആയിരിക്കും അതുകൊണ്ട് f ന് square നൽകപ്പെടുന്നു x ന് 5 നൽകപ്പെടുന്നു n ന് 2 നൽകപ്പെടുന്നു എന്നായിരിക്കും ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ square ന് കൃത്യമായി സമമാണ് f അതുകൊണ്ട് ഈ ഒരു അർത്ഥത്തിൽ ഒരു ഫംഗ്ഷന്റെ പേരെടുത്ത് മറ്റൊരു പേരിന് നൽകുവാൻ സാധിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് കാരണം ഒരു ഫംഗ്ഷൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തിവിടുവാൻ ഇത് നമ്മളെ അനുവദിക്കുന്നു മാത്രമല്ല ഒരു ഫംഗ്ഷൻ എന്താണ് എന്നറിയാതെ ആ ഫംഗ്ഷന് മറ്റൊരു ഫംഗ്ഷന്റെ ഉള്ളിൽ വെച്ച് എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കുന്നു sort പോലെയുള്ള ഫംഗ്ഷനുകൾ ഇഷ്ടാനുസരണം ഭേദഗതി വരുത്തുവാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ ഒരു പ്രായോഗിക ഉപയോഗം ചിലപ്പോൾ നമുക്ക് വ്യത്യസ്തമായ മാനദണ്ഡങ്ങളെ ആശ്രയിച്ചുകൊണ്ട് വിലകളെ സോർട്ട് ചെയ്യേണ്ടതായി വരും അതുകൊണ്ട് രണ്ട് ആർഗ്യുമെന്റുകൾ താരതമ്യം ചെയ്ത് ഒന്നാമത്തെ ആർഗ്യുമെന്റ് ചെറുതാണെങ്കിൽ 1 ഉം രണ്ട് ആർഗ്യുമെന്റുകളും തുല്യമാണെങ്കിൽ പൂജ്യവും ഒന്നാമത്തെ ആർഗ്യുമെന്റ് വലുതാണെങ്കിൽ 1 ഉം തിരികെ നൽകുന്ന ഒരു അബ്സ്ട്രാക്ട് ആയ compare ഫംങ്ക്ഷൻ നമുക്ക് ആവശ്യം വന്നേക്കാം അതുകൊണ്ട് രണ്ട് സ്ട്രിങ്ങുകൾ താരതമ്യം ചെയ്യുവാൻ രണ്ട് വ്യത്യസ്ത മാർഗ്ഗങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവാം കൂടാതെ ഈ രണ്ട് മാർഗ്ഗങ്ങളിലൂടെ സോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രിങ്ങുകൾ തമ്മിലുള്ള വ്യത്യാസം പരിശോധിക്കേണ്ടതായും വരും രണ്ട് സ്ട്രിങ്ങുകളെ നിഖണ്ഡു പ്രകാരം താരതമ്യം ചെയ്യുന്ന ഒരു സോർട്ട് ഫംഗ്ഷൻ നമുക്കുണ്ടാവാം അതുകൊണ്ട് aab പോലുള്ള സ്ട്രിങ്ങ് ab ക്ക് മുമ്പേ വരുന്നു കാരണം രണ്ടാമത്തെ സ്ഥാനത്തുള്ള a എന്ന അക്ഷരം b യേക്കാൾ ചെറുതാണ് അതുകൊണ്ട് ഇത് 1 എന്ന ഫലം തരും കാരണം ഒന്നാമത്തെ അർഗ്യുമെൻറ് രണ്ടാമത്തെ ആർഗ്യുമെൻറിനേക്കാൾ ചെറുതാണ് അതേ സമയത്ത് നമുക്ക് സ്ട്രിങ്ങുകളെ നീളത്തിൻറെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്യണമെങ്കിൽ അതേ അർഗ്യുമെൻറ് നമുക്ക് തരുന്നത് 1 ആയിരിക്കും കാരണം aab യുടെ നീളം 3 ആണ് ഇത് ab യേക്കാൾ നീളമുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഒരു സോർട്ട് ഫംഗ്ഷൻ എഴുതുവാൻ സാധിക്കും അത് ഒരു ലിസ്റ്റിനെ ഒന്നാമത്തെ അർഗ്യുമെന്റായും എങ്ങിനെയാണ് ഒരു ലിസ്റ്റിനകത്തുള്ള വിലകളെ താരതമ്യം ചെയ്യുന്നത് എന്ന ഫംഗ്ഷൻ രണ്ടാമത്തെ അർഗ്യുമെന്റായും എടുക്കുന്നു സോർട്ട് ഫംഗ്ഷന് സ്വയം ഒരു ലിസ്റ്റിലെ ഘടകങ്ങൾ ഏതൊക്കയാണെന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല എപ്പോഴെങ്കിലും അതിന് ചില ആർബിട്രറി വിലകളുടെ ഒരു ലിസ്റ്റ് നൽകപ്പെട്ടാൽ അവയെ എങ്ങിനെ താരതമ്യം ചെയ്യാമെന്നും പറയപ്പെടും അതുകൊണ്ട് ചെയ്യാനുള്ളതെന്താണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷന് രണ്ട് വിലകൾ പ്രയോഗിക്കുകയും അതിൻറെ ഉത്തരം 1 ആണോ പൂജ്യമാണോ 1 ആണോ എന്ന് പരിശോധിക്കുകയും അതിനെ ലെസ്സ് ദാൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ എന്നിങ്ങനെ യഥാക്രമം വ്യാഖ്യാനിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് അതിനെ നമ്മൾ മുൻപ് പറഞ്ഞ പ്രത്യേകതയുപയോഗിച്ചുകൊണ്ട് അതിനെ ഒരു ഡിഫാൾട്ട് ഫംഗ്ഷന് നൽകുവാൻ സാധിക്കും നിങ്ങൾ ഒരു സോർട്ട് ഫംഗ്ഷൻ സൂചിപ്പിച്ചില്ലെങ്കിൽ സോർട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന സൂചിതമായ ഒരു ഫംഗ്ഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ നൽകിയ താരതമ്യം ചെയ്യാനുള്ള ഫംഗ്ഷൻ അത് ഉപയോഗിക്കുന്നതായിരിക്കും ചുരുക്കി പറഞ്ഞാൽ വിലകൾ പേരുകൾക്ക് നൽകുന്നത് പോലെയാണ് ഫംഗ്ഷൻ നിർവ്വചനങ്ങൾ പെരുമാറുന്നത് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷന് ഒരു പുതിയ നിർവ്വചനം പുനർനിർദ്ദേശിക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപാധികളോടെ അതിനെ നിർവ്വചിക്കാം നിർണ്ണായകമായി നിങ്ങൾക്ക് ഒരു ഫംഗ്ഷന്റെ പേര് മറ്റൊരു ഫംഗ്ഷനെ സൂചിപ്പിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കാം കൂടാതെ നമ്മൾ ഫംഗ്ഷനെ മറ്റു ഫംഗ്ഷനുകളിലേക്ക് അയക്കുമ്പോൾ വളരെ വ്യക്തമായി ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല സോർട്ടിംഗ് പോലുള്ള അവസരങ്ങളിൽ താരതമ്യം ചെയ്യുവാനുള്ള ഫംങ്ക്ഷനെ സോർട്ട് ചെയ്യുവാനുള്ള ഫംങ്ക്ഷനിലേക്ക് അയച്ചുകൊണ്ട് നിങ്ങളുടെ സോർട്ടിങ്ങിനെ കൂടുതൽ വഴക്കമുള്ളതാക്കി മാറ്റുവാൻ സാധിക്കും